ബയോ റിയാക്ടറുകളെക്കുറിച്ചുള്ള ഈ NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിലെ പ്രഭാഷണം 6 ലേക്ക് സ്വാഗതം അവസാന പ്രഭാഷണത്തിൽ നമ്മൾ എൻസൈം കയ്നെറ്റിക്സ് പരിശോധിച്ചു മൈക്കിളിസ് മെന്റൻ എൻസൈം കയ്നെറ്റിക്സ് ഉള്ള സമവാക്യം നമ്മൾ ഉണ്ടാക്കി കൂടാതെ നമ്മൾ ഒരു പ്രോബ്ലം ഒരു പ്രാക്ടീസ് പ്രോബ്ലം 2 1 എന്നിവ നൽകി ഈ പ്രഭാഷണത്തിൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം ഞാൻ ഇവിടെ പൂർണ്ണ സ്ക്രീൻ ആക്കട്ടെ ഒരു വ്യവസായ ശാസ്ത്രജ്ഞൻ കൃഷിയുടെ സമയത്ത് കോശങ്ങളുടെ കൾച്ചറിന്റെ ഫലമായുണ്ടാകുന്ന ഒരു വിഷവസ്തു നീക്കം ചെയ്യുന്നതിനുള്ള ഒരു പുതിയ രീതി പഠിക്കുന്നു വിഷവസ്തു കുറയ്ക്കുന്നതിലൂടെയും ഇടത്തരം പുനർ ക്രമീകരണത്തിലൂടെയും കോശങ്ങളുടെ വിളവ് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം 5 മില്ലിമോളറിൽ താഴെയാണെങ്കിൽ വിഷവസ്തു കോശങ്ങളുടെ വളർച്ചയെ ബാധിക്കില്ല അവർ പഠിക്കുന്ന പ്രത്യേക വിഷവസ്തു എക്സ് E എന്ന എൻസൈം ഉപയോഗിച്ച് എൻസൈമിക്കായി തകർക്കാൻ കഴിയും ബ്രേക്ഡൌൺ പഠിച്ചത് 30 ഡിഗ്രി സെൽഷ്യസിലും 7 2ph ലുമാണ് ബാച്ച് സാഹചര്യങ്ങളിൽ ഇനിപ്പറയുന്ന കയ്നെറ്റിക്സ് ഡാറ്റ ലഭിച്ചു ഔ സമയത്തിനൊപ്പം X ന്റെ വ്യത്യാസം നൽകി A പാർട്ടിൽ ഈ എൻസൈമാറ്റിക് ഡീഗ്രേഡേഷനായി മൈക്കിളിസ് മെന്റൻ പാരാമീറ്ററുകൾ നിർണ്ണയിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടു ഭാഗം ബി മൊത്തം എൻസൈം സാന്ദ്രത മൂന്നിരട്ടിയാണെങ്കിൽ 30 മിനിറ്റിന് ശേഷം മീഡിയത്തിൽ X വിഷാംശം അടങ്ങിയിരിക്കുമോ ഇതാണ് നേരിട്ട പ്രശ്നം അതിനാൽ നമുക്ക് പോയി ഈ പ്രശ്നം പരിഹരിക്കാം ആദ്യ ചോദ്യം നമ്മുടെ പതിവ് ആദ്യ ചോദ്യം എന്താണ് വേണ്ടത് പാർട്ട് A മൈക്കിളിസ് മെന്റൻ പാരാമീറ്ററുകൾ vm K m എന്നിവയാണെന്ന് നമുക്കറിയാം മൈക്കിളിസ് മെന്റൻ സമവാക്യത്തിൽ vms നെര k m പ്ലസ് s കൊണ്ട് ഹരിച്ചാൽ vms ന് തുല്യമാണ് ഏകാഗ്രതകായി ഞാൻ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഉപേക്ഷിച്ചു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബ്രാക്കറ്റുകളില്ലാത്തവ ഇവിടെയുള്ള സാന്ദ്രതയ്ക്ക് തുല്യമാണ് ഓരോ തവണയും ഈ സ്ക്വയർ ബ്രാക്കറ്റ് എഴുതാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനാൽ ഞാൻ അത് ഉപേക്ഷിച്ചു ഇനി മുതൽ ഈ കോഴ്സിൽ ഞാൻ ഇത് ഉപേക്ഷിക്കാൻ പോകുന്നു അതിനാൽ എന്താണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ നൽകുന്നത് വിഷവസ്തുക്കളുടെ സാന്ദ്രതയെയും സമയത്തെയും കുറിച്ചുള്ള ഡാറ്റ വിഷവസ്തു ഇവിടെയുള്ള സബ്സ്ട്രേറ്റ് ആണ് വിഷവസ്തു എൻസൈം പ്രതിപ്രവർത്തനത്തിനുള്ള സബ്സ്ട്രേറ്റ് ആണ് അതിനാൽ നമുക്ക് t വേഴ്സസ് s ഉണ്ട് 5 ലെ ലെക്ചർ മെറ്റീരിയലിൽ നിന്ന് മൈക്കിളിസ് മെന്റൻ പാരാമീറ്ററുകൾ ലൈൻവീവർ ബർക്ക് പ്ലോട്ടിന്റെ ചരിവിൽ നിന്നും കൂടിച്ചേരലിൽ നിന്നും mm പാരാമീറ്ററുകൾ നേടാമെന്നും നമുക്കറിയാം ഇപ്പോൾ ആവശ്യമുള്ളവയെ എങ്ങനെ തന്നിരിക്കുന്നവയുമായി ബന്ധിപ്പിക്കാം നമുക്ക് വേഗത ആവശ്യമാണ് കാരണം നമുക്ക് 1 v ഉം 1 s ഉം തമ്മിലുള്ള പ്ലോട്ട് ചെയ്യേണ്ടതുണ്ട് അത്തരമൊരു ഡാറ്റയുമായി പ്രവർത്തിക്കുമ്പോൾ ഓരോ സമയ ഇടവേളയ്ക്കും ശരാശരി വേഗത കണക്കാക്കാം ഈ സാഹചര്യത്തിൽ 0 നും 10 മിനിറ്റിനും ഇടയിലുള്ള ആദ്യ സമയ ഇടവേള 10 മുതൽ 20 മിനിറ്റ് വരെ രണ്ടാമത്തെ സമയ ഇടവേള 20 മുതൽ 50 മിനിറ്റ് വരെ മൂന്നാമത്തെ സമയ ഇടവേള 50 മുതൽ 100 വരെ നാലാം തവണ ഇടവേള ഡെൽറ്റ എക്സ് എന്നത് ഡെൽറ്റ ടി കൊണ്ട് ഹരിച്ചാൽ നമുക്ക് വേഗത കണക്കാക്കാം കൂടാതെ സാന്ദ്രതയ്ക്ക് അനുയോജ്യമായ സമയങ്ങൾ ഇവിടെയുണ്ട് പക്ഷേ നിരക്കുകളുമായി പൊരുത്തപ്പെടുന്ന സമയങ്ങളില്ല സാധാരണയായി ചെയ്യുന്നത് കണക്കാക്കിയ നിരക്ക് ഇടവേളയുടെ മധ്യ ബിന്ദുവിലേക്ക് നിർണ്ണയിക്കാം ആദ്യ കേസിൽ ഇടവേള 0 മുതൽ 10 വരെയാണ് അതിനാൽ ശരാശരി 5 ആണ് നമ്മൾ നിരക്ക് കണക്കാക്കുകയും 5 മിനിറ്റ് സമയത്തിന് നൽകുകയും ചെയ്യുന്നു ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചുതരാം v എന്ന ത് മൈനസ് ഡെൽറ്റ s ബൈ ഡെൽറ്റ t v ∆S∆t ഈ സാഹചര്യത്തിൽ ആദ്യത്തെ കേസ് 0ന് 1 77 ആണ് 10നു അത് 20 ആണ് 7 മൈനസ് 20 അതായത് ഡെൽറ്റ s ഡെൽറ്റ t 10 മൈനസ് 0 ഉം ആണ് അതിനാൽ നമുക്ക് അവിടെയുണ്ട് തുല്യമാണ് ഇത് പ്രവർത്തിക്കുന്നു 17 7 മൈനസ് 20 മൈനസ് 2 3 മൈനസ് മൈനസ് 2 3 പ്ലസ് 2 3 ഉം 2 3 ബൈ 10 ഉം 0 മില്ലിമോളിൽ 0 23 ഇത് മില്ലിമോളിൽ നൽകിയിരിക്കുന്നു മിനിറ്റിലുള്ള മില്ലിമോൾ 23 mMmin 1assigned to t 5 min S 18 85 അതിനാൽ അതു നമ്മൾ 0 യും 10 ന്റെയും ഇടയിൽ കേന്ദ്രബിന്ദുവിന് കൊടുത്തിരിക്കുന്നു അതായത് 5 മിനിറ്റിന് തുല്യമാണ് അതിനാൽ t 5 മിനിറ്റ് തുല്യമാകുമ്പോൾ സബ്സ്ട്രേറ്റ് സാന്ദ്രത ഈ സമയത്തിന്റെ ഇടവേളയിൽ രേഖീയമായി വ്യത്യാസപ്പെടുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം നമുക്ക് വളരെ അടുപ്പിച്ചുള്ള പോയിന്റുകളുണ്ടെങ്കിൽ അത് നല്ലതാണ് നമുക്ക് നോക്കാം ഇത് ഇവിടെ ഒരുതരം എസ്റ്റിമേറ്റ് ആയിരിക്കും ചില പോയിൻറുകൾ അകലത്തിലാണുള്ളത് എന്നാൽ നമ്മൾ പ്രവർത്തിക്കേണ്ട ഡാറ്റയാണിത് അതിനാൽ ഡാറ്റാ ഉപയോഗിച്ച് നമുക്ക് പരമാവധി ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം അതിനാൽ കേന്ദ്രബിന്ദു കേന്ദ്രബിന്ദു tക്ക് 5 മിനിറ്റിന് തുല്യമായ സബ്സ്ട്രേറ്റ് സാന്ദ്രത 18 85 ആണ് ഇത് ഈ രണ്ടിന്റെയും ശരാശരിയാണ് അതാണ് നമ്മൾ നൽകേണ്ടത് അപ്പോൾ v 2 ഇതിനും ഇതിനും ഇടയിലാണ് 15 8 മൈനസ് 17 7 20 മൈനസ് 10 മിനിറ്റിന് ഇതിന്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ 0 19 മില്ലിമോളായി മാറുന്നു v 15 19 mMmin 1assigned to t 15 min S 16 75 mM നമ്മൾ അതിനെ മധ്യ ബിന്ദുവിലേക്ക് കൊടുക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ഇവിടെ 1v യും 1 s ഉം തമ്മിലുള്ള പ്ലോട്ട് ചെയ്യുന്നു അതിനാൽ 10ത്തിന്റെയും 20ത്തിന്റെയും കേന്ദ്ര ബിന്ദു 15 മിനിറ്റ് ആണ് ഈ പ്രദേശത്തെ ലീനിയർ കുറയുന്നുവെന്ന് കരുതുക 17 8 ൻറെയും ശരാശരി 16 അതിനാൽ t 15 മിനിറ്റിന് തുല്യമാണ് s 16 75 ന് തുല്യമാണ് ഈ 5 എന്ന നമ്പർ ലഭിക്കാൻ നമ്മൾ കണക്കാക്കിയ v 0 23 ആയിരുന്നു രേഖീയത കണക്കിലെടുത്ത് 5 മിനിറ്റിലെ അനുബന്ധങ്ങൾ 18 സമയം t 15 മിനിറ്റിന് തുല്യമാണ് s 16 75 v 0 19 ന് തുല്യമാണ് മറ്റ് രണ്ട് കണക്കുകൂട്ടലുകളും നമ്മൾ വിശദമായി കണ്ടു അതേ രീതിയിൽ തന്നെ ഈ മൂല്യങ്ങൾ 35 മിനിറ്റിനും 75 മിനിറ്റിനും നമുക്ക് ലഭിക്കും അവ ആ ഇടവേളകളുടെ മധ്യ പോയിന്റുകളാണ് s അനുബന്ധ രേഖീയ വ്യതിയാനങ്ങളുടെ മധ്യ പോയിന്റുകളും v ആ ഇടവേളയിൽ കണക്കാക്കിയ ശരാശരി നിരക്കും Time min 5 15 35 75 S mM 18 2 7 8 v mM min 1 0 112 ഇപ്പോൾ നമുക്ക് ഇത് ഉണ്ട് 1 v യും 1 s ഉം തമ്മിൽ പ്ലോട്ട് ചെയ്യേണ്ടതുണ്ട് 1 by v ഉം 1 by s ഉം ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത് നമുക്ക് v ഉം s ഉം ഉണ്ട് അതിനാൽ നമുക്ക് അതിന്റെ വിപരീത മൂല്യങ്ങൾ ആവശ്യമാണ് നമ്മൾ വിപരീതമാക്കിയാൽ 18 85 1 18 053 ആണ് നമുക്ക് കണക്കുകൂട്ടൽ പരിശോധിക്കാൻ കഴിയും എവിടെയെങ്കിലും ഒരു സംഖ്യാ പിശക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എന്നോട് പറയുക 75 ന്റെ വിപരീതം 0 2 ന്റെ വിപരീതം 0 8 ന്റെ വിപരീതം 0 128 ആണ് അതുപോലെ vന്റെ വിപരീതങ്ങൾ1 v 1 0 23 4 35 1 0 26 1 0 173 5 1S mM 1 0 06 0 128 1v 1 4 35 5 26 5 78 8 93 പ്ലോട്ട് ചെയ്യാൻ സ്പ്രെഡ് ഷീറ്റ് ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ നല്ലത് പ്ലോട്ട് ചെയ്യാൻ നമുക്ക് ഒരു ഗ്രാഫ് ഷീറ്റ് ഉപയോഗിക്കാം പ്ലോട്ട് ചെയ്യാൻ നമുക്ക് ഒരു സ്പ്രെഡ് ഷീറ്റ് ഉപയോഗിക്കാം ഒരു സ്പ്രെഡ് ഷീറ്റ് ഉപയോഗിച്ച് ഞാൻ അത് കാണിച്ചുതരാം നമുക്ക് 1 s ഈ നിരയിലെ മൂല്യങ്ങൾ 1 v ഈ നിരയിലെ മൂല്യങ്ങൾ എന്നിവയുണ്ട് 1 s ഉം 1 v യും ഇടയിൽ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവ നേരത്തെ പട്ടികയിൽ കണ്ട അതേ മൂല്യങ്ങളാണ് നമ്മൾ ഇത് 1 v വേഴ്സ്സസ് 1s എന്നിവ ഉപയോഗിച്ച് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പോയിന്റുകൾ ഇവയാണ് ഇപ്പോൾ ഈ സ്പ്രെഡ് ഷീറ്റ് ms excel ഉപയോഗിക്കാൻ നമ്മളെ അനുവദിക്കുന്നു അല്ലെങ്കിൽ ഒരു മികച്ച ലൈൻ വരയ്ക്കാൻ നമുക്ക് കഴിയുന്നു ഈ പോയിൻറുകൾക്ക് യോജിക്കുന്ന മികച്ച ലൈൻ 9879 ന്റെ ഏറ്റവും കുറഞ്ഞ സ്ക്വയറുകളുള്ള ഏറ്റവും മികച്ച ലൈൻ ഫിറ്റാണിത് ഇവിടെ പ്രദർശിപ്പിക്കാൻ ഞാൻ ആവശ്യപ്പെട്ട വരിയുടെ സമവാക്യം 58 348 x കൂട്ടണം 1 4559 ആണ് y എന്നത് 1 by v ഉം x 1 s ഉം ആണ് അതിനാൽ 1 v 58 348 ഗുണിക്കണം 1 s പ്ലസ് 1 445 ആണ് അത് കണ്ടെത്തുന്നതിന് നമ്മൾ ഇത് നമ്മളുടെ കണക്കുകൂട്ടലിൽ ചെയ്യുമായിരുന്നു നമുക്ക് ഒരു ഗ്രാഫ് പേപ്പറും ഉപയോഗിക്കാം നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കണം 1 ഇത് ഇത് സമാന ഗ്രാഫ് ആണ് ഈ സ്ലോപ്പ് 58 സോഫ്റ്റ്വെയർ നമുക്ക് ധാരാളം അക്കങ്ങൾ നൽകും പക്ഷേ നമുക്ക്ട അക്കങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് നമുക്ക് ഇത് തിരഞ്ഞെടുക്കാം ദശാംശ സ്ഥാനത്തിന് ശേഷം ഇവിടെ രണ്ട് അക്കങ്ങൾ സ്ലോപ് 58 35 ആണ് കൂടാതെ ഒരു ലൈൻവീവർ ബർക്ക് പ്ലോട്ടിൽ ഈ ചരിവ് K m ന് v m ന് തുല്യമാണെന്ന് നമുക്കറിയാം അതിനാൽ K m by vm ഉം ലൈൻവീവർ ബർക്ക് പ്ലോട്ടിൽ 1 46 ആയി സംഭവിക്കുന്ന ഇന്റർസെപ്റ്റ് 1 by vm ഉം ആണ് ഡെസിമൽ പോയിൻറ് 1 46 ന് ശേഷമുള്ള രണ്ട് അക്കങ്ങളിലേക്ക് ഞാൻ ഇവിടെ ഈ വലിയ സംഖ്യകൾ റൌണ്ട് ചെയ്യുന്നു Slope Kmvm58 35 Intercept 1vm1 26 mM അതിനാൽ ഇതിൽ നിന്ന് നമുക്ക് vm km എന്നിവ കണ്ടെത്താനാകും ലളിതമായ കാര്യം v 1 ന്റെ 1 ന്റെ വിപരീതമാണ് 1 46 vm ആയിരിക്കും അതിനാൽ vm മിനിറ്റിൽ 0 69 മില്ലിമോളാർ ആണ് ഇപ്പോൾ നമുക്ക് അറിയാം vm ന് പകരമായി ഇവിടെ ഒരു K m കണക്കാക്കുക K m 58 35 vm ആയി മാറുന്നു km വഴി vm 58 35 ആണെന്ന് നമുക്ക്കറിയാം അതിനാൽ കിലോമീറ്റർ 58 35 vm ആയി മാറുന്നു അത് 58 69 അല്ലെങ്കിൽ 40 26 മില്ലിമോളറായി മാറുന്നു അതിനാൽ ഇവ മൈക്കിളിസ് മെന്റൻ പാരാമീറ്ററുകൾ vm ആണ് ഇത് മിനിറ്റിന് 0 69 മില്ലിമോളും കിലോമീറ്റർ 40 26 ഉം ആണ് അത് ഒരു പാർട്ട് ആയിരുന്നു നമുക്ക് ഇപ്പോഴും പാർട്ട് ബി ശേഷിക്കുന്നു പാർട്ട് ബിക്ക് സമാന ചോദ്യങ്ങൾ എന്താണ് വേണ്ടത് മൊത്തം എൻസൈം സാന്ദ്രത മൂന്നിരട്ടിയാണെങ്കിൽ 30 മിനിറ്റിനുശേഷം മീഡിയത്തിൽ എക്സിൻറെ വിഷാംശം അടങ്ങിയിട്ടുണ്ടോ നമ്മൾ അത് കണ്ടെത്തേണ്ടതുണ്ട് എന്താണ് അറിയുന്നത് അല്ലെങ്കിൽ നൽകുന്നത് X ന്റെ വിഷനില 7 5 മില്ലിമോളാർ ആണ് 0 സമയത്ത് X ന്റെ സാന്ദ്രത പട്ടികയിൽ നിന്ന് 20 മില്ലിമോളാർ ആണ് ഈ പ്രതികരണത്തിന്റെ തോത് മൈക്കിളിസ് മെന്റൻ സമവാക്യം പ്രകാരമായിരിക്കുമെന്ന് നമുക്കറിയാം മൈക്കലിസ് മെന്റൻ പാരാമീറ്ററുകൾ ഒരു പാർട്ട് എ മുതൽ നമുക്കറിയാം ഇതെല്ലാം നമുക്കറിയാം ഇപ്പോൾ ആവശ്യമുള്ളവയുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് നമ്മൾ അത് എങ്ങനെ ചെയ്യും S അല്ലെങ്കിൽ X അല്ലെങ്കിൽ ടോക്സിൻ S എടുത്ത സമയം ഇവിടെ കണ്ടെത്തേണ്ടതുണ്ട് പ്രാരംഭ സമയത്ത് 20 മില്ലിമോളറിൽ നിന്ന് 7 5 മില്ലിമോളറിൽ എത്താൻ ടോക്സിൻ X ഇവിടെ S ആണ് റഫർ സമയം 1321 ആ സമയം 30 മിനിറ്റിലധികം ആണെങ്കിൽ അതെ 30 മിനിറ്റ് കഴിയുമ്പോൾ 7 5 മില്ലിമോളോ അതിൽ കൂടുതലോ ഉണ്ടാകും സമയം 30 മിനിറ്റിനുള്ളിൽ കുറവാണെങ്കിൽ മീഡിയത്തിൽ വിഷാംശം അടങ്ങിയിരിക്കില്ല നമ്മൾ s കണ്ടു പിടിക്കുന്നതിനു ആ v തിരിച്ചറിയണമെന്നും അതാണ് റേറ്റ് ഈ ബാച്ചിൽ s അപ്രത്യക്ഷം ആകുന്ന റേറ്റ് v ഈക്വല്സ് മൈനസ് d s d t എന്നും നമുക്ക് സബ്സ്ട്രേറ്റ്ന്റെ അക്യുമുലേഷൻ നിരക്ക് ഇവിടെ നെഗറ്റീവ് സമാഹരണം അത് ഈക്വല്സ് v m s ഹരിക്കണം K m പ്ലസ് s v dSdtvmSKmS ഈ ഡിഫറൻഷ്യൽ സമവാക്യം മൈനസ് K m പ്ലസ് s ഉപയോഗിച്ച് പരിഹരിച്ചാൽ ds ഈക്വല്സ് v m d t ആണ് KmSSdSvmdt ഡിഫറൻഷ്യൽ സമവാക്യത്തിന്റെ സൊല്യൂഷൻ നമുക്ക് അറിയാമെന്നു നമ്മൾ പരിഗണിക്കുന്നു നമുക്ക് എല്ലാ വേരിയബിളുകളും ലഭിക്കേണ്ടതുണ്ട് ഒരു വശത്തേക്ക് ഉചിതമായ വേരിയബിളുകൾ എല്ലാം s ഉം ഈ ഭാഗത്താണ് നമ്മൾ അത് ചെയ്തു K m by s plus 1 അതിന്റെ മൈനസ് d s എന്നത് v m d t ആണ് KmS1dSvmdt ഇന്റർഗ്രേറ്റ് ചെയുമ്പോൾ മൈനസ് k m നേച്ചുറൽ ലോഗരിതം S പ്ലസ് S അതു v m t ആണ് Km lnSSvmt സംയോജനത്തിന്റെ പരിധികൾ S ന് S0 മുതൽ S വരെയും t ന് t0 മുതൽ t t0 0 ആണ് അതിനാൽ നമ്മൾ ഇത് സമന്വയിപ്പിക്കുകയാണെങ്കിൽ Km lnSS0S S0vm Or Km lnS0SS0 Svmt മൊത്തം എൻസൈം സാന്ദ്രത മൂന്നിരട്ടിയായിരിക്കുമ്പോൾ എന്താണ് പ്രധാനമായും സംഭവിക്കുന്നത് മൊത്തം എൻസൈം സാന്ദ്രത പുതിയ മൊത്തം എൻസൈം സാന്ദ്രത പഴയ മൊത്തം എൻസൈം സാന്ദ്രതയുടെ മൂന്നിരട്ടിയാണ് എന്നാൽ മൊത്തം എൻസൈം സാന്ദ്രതയെ എങ്ങനെ ബാധിക്കുന്നു അത് നമുക്ക് പ്രധാനമാണ് അത് vm ഡാഷ് അല്ലെങ്കിൽ vm ആണ് മാക്സിമം നിരക്ക് അത് നമുക്കറിയാം vmk3Et So vmk3Et vmk3×3×Et since Et3Et ∴vm3×k3Et3vm3×0 07mMmin 1 ബാക്കിയുള്ളവ നേരെയാണ് നമുക്ക് സമയത്തിനൊപ്പം സബ്സ്ട്രേറ്റ് വ്യതിയാനമുണ്ട് ഈ സമവാക്യത്തിൽ നിന്നും അത് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ സബ്സ്റ്റിട്യൂട് ചെയുകയാണെകിൽ 40 07t t 25 1 min 20 മില്ലിമോളറിൽ നിന്ന് ആരംഭിച്ച് X സാന്ദ്രത 7 5 മില്ലിമോളറായി കുറയാൻ ഏകദേശം 25 മിനിറ്റ് എടുക്കും 25 മിനിറ്റ് 30 മിനിറ്റിൽ താഴെയാണ് അതിനാൽ 30 മിനിറ്റിനുള്ളിൽ X വിഷാംശം അവശേഷിക്കുകയില്ല